ഹലോ സുഹൃത്തുക്കളേ നമ്മുടെ മൊഡ്യൂൾ നമ്പർ 9 ലെ റഫ്രിജറേഷൻ സൈക്കിളുകളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയിലെ അവസാന പ്രഭാഷണമാണിത് മുമ്പത്തെ രണ്ട് പ്രഭാഷണങ്ങളിൽ ഞങ്ങൾ കംപ്രഷൻ റഫ്രിജറേഷൻ സിസ്റ്റം പരിചയപ്പെടുത്തി ഇവിടെ നമുക്കൊരു ഇവപൊറേറ്റർ ഉണ്ട് ശീതീകരണത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിന്ന് റെഫ്രിജറന്റ് ഊർജ്ജം ശേഖരിക്കുകയും അത് നീരാവിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്യുന്നു സാധാരണയായി സാച്ചുറേറ്റഡ് നീരാവി അല്ലെങ്കിൽ ചില അവസരങ്ങളിൽ സൂപ്പർഹീറ്റ് നീരാവിഡ് ഉണ്ടാകും തുടർന്ന് വായു കംപ്രസ്സർ ഇൽ കംപ്രസ്സുചെയ്യുന്നതിലൂടെ അതിന്റെ മർദ്ദവും താപനിലയും ഉയരും അങ്ങനെ അതിന്റെ താപനില ചുറ്റുമുള്ള താപനിലയേക്കാൾ കൂടുതലാകും അതിനനുസരിച്ച് നമുക്ക് ചുറ്റുമുള്ള കണ്ടൻസറിലേക്കുള്ള താപം നിരസിക്കാം വേപ്പർ കംപ്രഷൻ സൈക്കിളിന്റെ വ്യത്യസ്ത വ്യതിയാനങ്ങൾ മൾട്ടി സ്റ്റേജിംഗ് മൾട്ടിപ്പിൾ കംപ്രസ്സറുകൾ ലൊ ടെമ്പറേച്ചർ റഫ്രിജറേഷൻ ഗ്യാസ് റഫ്രിജറേഷൻ സൈക്കിളുകൾ എന്നിവയെ കുറിച്ച് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ ചർച്ച ചെയ്തു ഇവിടെ ഫെയ്സ് ചേഞ്ച് പ്രക്രിയകൾ ഒന്നുമില്ല ഒരു റിവേഴ്സ് ബ്രൈറ്റൺ സൈക്കിളിൽ പ്രവർത്തി മാധ്യമം ഉടനീളം വാതകമായി നില നിൽക്കുന്നത് പോലെ ഇവപൊറേറ്റർ കണ്ടൻസർ ഇവയ്ക്ക് പകരമായി രണ്ട് ഹീറ്റ്എക്സ്ചേഞ്ചറുകളുണ്ട് ഒന്ന് പ്രവർത്തി മാധ്യമം റഫ്രിജറേറ്ററിൽ നിന്നും ചൂട് എടുക്കുന്നത് മറ്റൊന്ന് ചുറ്റുപാടുകളിൽ നിന്നുള്ള ചൂട് നിരസിക്കുകയും ചെയ്യുന്നത് നമ്മൾ ബ്രൈറ്റൺ സൈക്കിൾ വിശകലനം ചെയ്യുന്നതിന് സമാനമായി നമുക്ക് ഗ്യാസ് റഫ്രിജറേഷൻ സൈക്കിളിനെ വിശകലനം ചെയ്യാൻ കഴിയും റിവേഴ്സ് സ്റ്റാർലിംഗ് സൈക്കിൾ ആയ സ്റ്റിർലിംഗ് ഫ്യൂച്ചർ സൈക്കിളിന്റെ പേര് ഞാൻ പറയുകയും പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ പുസ്തകങ്ങളിലും തിരയാം ഇപ്പോൾ ഞാൻ മറ്റൊരു തരത്തിലുള്ള ശീതീകരണ സംവിധാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അത് വീണ്ടും നീരാവി അടിസ്ഥാനമാക്കിയുള്ളതാണ് പക്ഷേ ഒരു വേപ്പർ കംപ്രഷൻ അല്ല കാരണം ഇവിടെ കംപ്രസ്സർ ഇല്ല വേപ്പർ കംപ്രഷൻ റഫ്രിജറേഷൻ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അത് ഏറ്റവും ജനപ്രീതിയുള്ള ഒന്നാണെന്ന് ഞാൻ സൂചിപ്പിക്കേണ്ടതുണ്ടെങ്കിലും ശീതീകരണത്തിന്റെ 85 90 പ്രായോഗിക പ്രവർത്തനങ്ങൾ സാധാരണയായി ഈ റിവേഴ്സ് കംപ്രഷൻ വിഭാഗത്തിൽ പെടുന്നതാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും വിമാന ആപ്ലിക്കേഷനുകൾ ഗ്യാസ് കംപ്രഷൻ അടിസ്ഥാനമാക്കിയുള്ള റഫ്രിജറേഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഉള്ളതാണ് എന്നിരുന്നാലും ഞാൻ കംപ്രസ്സർ ഇല്ലാത്ത ഒന്നിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു അതും നീരാവി അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിനെ പുതിയ സാങ്കേതികവിദ്യ എന്ന് ഞാൻ പറയേണ്ടതില്ല കാരണം ഈ സാങ്കേതികവിദ്യ വളരെ പഴയതാണ് എന്നാൽ ഇതിന്റെ ചില പോരായ്മകൾ കാരണം വാണിജ്യവത്ക്കരണത്തിൽ അത്രയും നേട്ടം കൈവരിക്കാനായില്ല എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രത്യേകിച്ചും ആഗോളതാപനം സിന്തറ്റിക് റഫ്രിജറന്റുകൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതങ്ങൾ കേന്ദ്രീകരിച്ച് നോക്കിയാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു ഹരിത സാങ്കേതികവിദ്യയാണ് പ്രത്യേകിച്ചും വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത് ഉപയോഗിക്കുന്നു ഒരു ഷോപ്പിംഗ് മാളിനായി ഒരു കേന്ദ്രീകൃത എയർ കണ്ടീഷനിംഗ് അല്ലെങ്കിൽ വലിയ തീയറ്ററിനായി കേന്ദ്രീകൃത എയർ കണ്ടീഷനിംഗ് പോലുള്ള വലിയ തോതിലുള്ള ശീതീകരണത്തിനായി ഇത്തരത്തിലുള്ള സംവിധാനം തികച്ചും ലാഭകരമാണ് ഈ പ്രത്യേക സംവിധാനം വേപ്പർ അബ്സോർപ്ഷൻ റഫ്രിജറേഷൻ സിസ്റ്റം VAR സിസ്റ്റം എന്ന് വിളിക്കുന്നു വേപ്പർ കംപ്രഷൻ റഫ്രിജറേഷൻ VCR പോലെ ഇത് VAR ആണ് നീരാവി ആഗിരണ ശീതീകരണ സംവിധാനം ഇവിടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ നീരാവി കംപ്രസ് ചെയ്യുന്നതിനു പകരം ഇവിടെ നീരാവി ആഗിരണം ചെയ്യുന്നു വേപ്പർ കംപ്രഷൻ റഫ്രിജറേഷൻ സിസ്റ്റത്തിലെ പോലെ ഇതിന് നാല് ഘടകങ്ങളുണ്ട് നമുക്ക് ഒരു ഇവപൊറേറ്റർ ഉണ്ട് അത് ശീതീകരണ സ്ഥലത്തു നിന്ന് ഊർജ്ജം വലിച്ചെടുക്കുന്നു നമുക്ക് ഒരു കണ്ടൻസർ ഉണ്ട് അവിടെ നീരാവി ചുറ്റുപാടിലേക്ക് താപത്തെ നിരസിക്കാൻ സഹായിക്കുന്നു നമുക്ക് ഒരു എക്സ്പാൻഷൻ വാൽവ് ഉണ്ട് അവിടെ നീരാവിയുടെ മർദ്ദം കണ്ടൻസർ മർദ്ദത്തിൽ നിന്ന് ബാഷ്പീകരിക്കപ്പെട്ട മർദ്ദ നിലയിലേക്ക് തിരികെ പോകുകയും തുടർന്ന് താപനിലയിൽ മാറ്റം വരുത്തുകയുംചെയ്യുന്നു എന്നാൽ നാലാമതായി കംപ്രസ്സർ ന് പകരം മറ്റൊരു ഘടകം ഉണ്ട് വേപ്പർ അബ്സോർപ്ഷൻ റഫ്രിജറേഷൻ സിസ്റ്റത്തിൽ മറ്റു മൂന്നു ഘടകങ്ങൾ ഇവപൊറേറ്റർ കണ്ടൻസർ എക്സ്പാൻഷൻ വാൽവ് ഇവ പഴയതുപോലെ നിലനിൽക്കുന്നു ഇവിടെ കണ്ടൻസറിനെ മറ്റ് നിരവധി ഘടകങ്ങളുടെ സംയോജനത്തിലൂടെ മാറ്റിസ്ഥാപിക്കുന്നു ഇവിടെ നമ്മൾ റഫ്രിജറൻറ് കൂടാതെ മറ്റൊരു വസ്തു കൂടി ഉപയോഗിക്കും റഫ്രിജറന്റ്നെ ആഗിരണം ചെയ്യാൻ ഒരു അബ്സോർബർ അല്ലെങ്കിൽ അബ്സോർബന്റ് ഇവിടെ പുതുതായി ആയി അവതരിപ്പിച്ചിരിക്കുന്നു കംപ്രസ്സർ ഇൽ നടക്കുന്ന അതേ പ്രക്രിയ നമുക്ക് ഇവിടെ ലഭിക്കുന്നു ഒരു കംപ്രസ്സർ പ്രവർത്തനം എന്താണെന്ന് ഓർക്കുക തീർച്ചയായും നീരാവി കംപ്രസ്സു ചെയ്യാനാണ് ഒരു കംപ്രസ്സർ ഉപയോഗിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് നീരാവി കംപ്രസ് ചെയ്യുന്നത് കാരണം നീരാവിയിലെ മർദ്ദം ബാഷ്പീകരണ മർദ്ദത്തിൽ നിന്ന് കണ്ടൻസർ മർദ്ദ നിലയിലേക്ക് ഉയർത്തണം അതായത് കണ്ടൻസർ മർദ്ദ തലത്തിലെ സാച്ചുറേഷൻ താപനില ചുറ്റുമുള്ള താപനിലയേക്കാൾ കൂടുതലായിരിക്കണം അതിനാൽ കംപ്രസ്സർ ഉണ്ടായിരിക്കുന്നതിന്റെ ആത്യന്തിക ലക്ഷ്യം ഈ മർദ്ദം വർദ്ധിക്കുക അല്ലെങ്കിൽ ബാഷ്പീകരണ നിലയിൽ നിന്ന് കണ്ടൻസർ തലത്തിലേക്ക് മാറ്റുക എന്നതാണ് അത് നേടുന്നതിനുള്ള ഏതൊരു പ്രതിവിധിയും സ്വാഗതാർഹമാണ് പ്രത്യേകിച്ചും കംപ്രസ്സറിനായുള്ള വർക്ക് ഇൻപുട്ട് ആവശ്യകത ഗണ്യമായി കുറയ്ക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഉപകരണം ചെയ്യാൻ കഴിയുമെങ്കിൽ അത് തീർച്ചയായും വളരെ അഭികാമ്യമാണ് അതിനാലാണ് ഇത് ഉള്ളത് ഇവിടെ എഴുതിയ അമോണിയയും വെള്ളവും ഇതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ഈ കോമ്പിനേഷനിൽ ഞാൻ കൂടുതൽ സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നു എന്നാൽ ഇവിടെ കുത്തിട്ട വരയാൽ പൊതിഞ്ഞ ഒരു വലിയ ദീർഘചതുരം ഉണ്ടെന്ന് കരുതുക ദീർഘചതുരത്തിന് പുറത്ത് നമുക്ക് എന്തൊക്കെ ഘടകങ്ങളുണ്ട് ഞങ്ങൾക്ക് കണ്ടൻസർ ഉണ്ട് എക്സ്പാൻഷൻ വാൽവ് ഉണ്ട് ഇവപൊറേറ്റർ ഉണ്ട് ഇവപൊറേറ്റർ ൽ നിങ്ങളുടെ റഫ്രിജറൻറ് QL ചൂട് വലിച്ചെടുക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ പദാവലി പ്രകാരം Q dot E തണുത്ത റഫ്രിജറേറ്റഡ് സ്ഥലത്ത് നിന്ന് എടുക്കുന്നു നമ്മുടെ പദാവലി പ്രകാരം കണ്ടൻസറിൽ അത് Q dot C ചുറ്റുപാടിലേക്ക് നിരസിക്കുന്നു എക്സ്പാൻഷൻ വാൽവിൽ മർദ്ദം കണ്ടൻസർ മർദ്ദത്തിൽ നിന്ന് ബാഷ്പീകരണ മർദ്ദത്തിലേക്ക് താഴുന്നു എക്സ്പാൻഷൻ വാൽവിന്റെ മുകൾ ഭാഗത്ത് മർദ്ദം കണ്ടൻസർ മർദ്ദ നിലയും താഴേ അത് ബാഷ്പീകരണ മർദ്ദ നിലയുമാണ് അതിനാൽ ഈ മൂന്ന് ഘടകങ്ങളും അവയുടെ സാധാരണ പ്രവർത്തനം മാത്രമാണ് ചെയ്യുന്നത് ബാഷ്പീകരണത്തിന്റെ ഒടുവിൽ കണ്ടൻസറിന്റെ ആരംഭത്തിൽ ഉണ്ടായിരിക്കേണ്ട കംപ്രസ്സർ ഒരു വലിയ ദീർഘചതുരം കൊണ്ട് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നു ഇപ്പോൾ നമുക്ക് ദീർഘചതുരത്തിൽ എന്താണ് ഉള്ളത് ഘടകങ്ങൾ ബാഷ്പീകരണ ഒടുവിൽ നിന്ന് ആരംഭിക്കുന്ന അടിസ്ഥാനത്തിൽ നോക്കാം ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റഫ്രിജറന്റ് പ്രകൃതിദത്ത റഫ്രിജറന്റുകളിലൊന്നായ അമോണിയയാണ് ഈ സിസ്റ്റത്തിൻറെ ഒരു വലിയ നേട്ടം അമോണിയ അല്ലെങ്കിൽ നീരാവി പോലുള്ള പ്രകൃതിദത്ത റഫ്രിജറന്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ബാഷ്പീകരണത്തിൻറെ ഒടുവിൽ പുറത്തുവരുന്ന അമോണിയ നീരാവി സാധാരണയായി സാച്ചുറേറ്റഡ് നീരാവി അല്ലെങ്കിൽ സൂപ്പർഹിറ്റ്ഡ് നീരാവി അവസ്ഥയിലാണ് ഉണ്ടാവുക ഇപ്പോൾ നമ്മൾ അബ്സോർബർ എന്നറിയപ്പെടുന്ന രണ്ട് വലിയ അറകൾ എടുക്കുന്നു ഈ അറയിൽ നമുക്ക് വെള്ളം അല്ലെങ്കിൽ സാന്ദ്രത കുറഞ്ഞ അമോണിയ അമോണിയയുടെ ജലീയ ലായനി അമോണിയ ജല മിശ്രിതം ഇവയിലേതെങ്കിലും ഉണ്ടാവും അമോണിയ ഈ മിശ്രിതവുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞാൽ അത് ആഗിരണം ചെയ്യപ്പെടുകയും ചുറ്റുപാടുകളിലേക്ക് ചൂട് നിരസിക്കപ്പെടുകയും ചെയ്യും അതിനാൽ നമുക്ക് ചില കൂളിംഗ് ജാക്കറ്റ് ആവശ്യമാണ് അതിലൂടെ നമുക്ക് കുറഞ്ഞ താപനില നിലനിർത്താനും വാതക അമോണിയ ഈ മിശ്രിതത്തിൽ ആഗിരണം ചെയ്യപ്പെടുമ്പോൾ താപത്തെ തുടർച്ചയായി നീക്കംചെയ്യാനും കഴിയും അതിനാൽ ഈ ഘടകത്തെ അബ്സോർബർ എന്ന് വിളിക്കുന്നു കാരണം അമോണിയ വെള്ളത്തിൽ ആഗിരണം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഉയർന്ന സാന്ദ്രതയോടെ മറ്റൊരു ലായനി ഉണ്ടാക്കുന്നതിനായി അമോണിയയുടെ ജല ലായനിയിൽ കൂടിച്ചേരുന്നു ഇവിടെ തുടക്കത്തിൽ കുറഞ്ഞ സാന്ദ്രതയുള്ള അമോണിയ ആയിരുന്നുവെങ്കിൽ ഇവപൊറേറ്റർ ൽ നിന്ന് അമോണിയ ആഗിരണം ചെയ്യപ്പെട്ടു കഴിയുമ്പോൾ നമുക്ക് ഉയർന്ന സാന്ദ്രതയുള്ള ഒരു ലായനി ലഭിക്കുന്നു നമുക്ക് സ്റ്റേറ്റുകൾക്ക് കുറച്ച് പേര് നൽകാം കണ്ടൻസറിന്റെ പുറത്തുകടക്കുമ്പോൾ സ്റ്റേറ്റ് നമ്പർ 1 2 ബാഷ്പീകരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 3 തുടർന്ന് 4 ഇവപൊറേറ്റർ ൽ നിന്ന് പുറത്തുവരുന്നു അതിനാൽ ഈ സ്റ്റാറ്റസ് 5 അമോണിയയുടെ ഉയർന്ന സാന്ദ്രത ഉള്ള ഒരു ലായനിയാണ് ഇവിടെ ഒരു പമ്പ് ഉണ്ട് അതിൽ കംപ്രസ്സറിൽ ചെയ്തതു പോലെ ബാഷ്പീകരണ മർദ്ദത്തിൽ നിന്ന് കണ്ടൻസർ മർദ്ദ നിലയിലേക്ക് മർദ്ദം മാറ്റമുണ്ടാകാൻ കാരണമാകുന്നു കംപ്രസ്സറിൽ നമ്മുടെ പ്രവർത്തന മാധ്യമം എന്താണ് പ്രവർത്തന മാധ്യമം നീരാവി ആണ് ഇത് സ്റ്റഡി ഫ്ലോ ഉപകരണമോ ഓപ്പൺ സിസ്റ്റമോ ആയതിനാൽ വർക്ക് ഇൻപുട്ട് ആവശ്യകത Win ഇങ്ങനെ പ്രതിനിധീകരിക്കുന്നു ഇവിടെ PE ഇവപൊറേറ്റർ മർദ്ദമാണ് PC കണ്ടൻസർ മർദ്ദമാണ് ഇവിടെ ഈ രണ്ട് മർദങ്ങൾ PE PC ഒന്നു തന്നെയാണ് ഈ ഇൻപുട്ട് വർക്ക് ആവശ്യകതയുടെ വ്യാപ്തി തീർച്ചയായും പ്രവർത്തന മാധ്യമത്തിന് നിർദ്ദിഷ്ട വോള്യത്തെ ആശ്രയിച്ചിരിക്കുന്നു വേപ്പർ കംപ്രഷൻ സിസ്റ്റത്തിൽ നിങ്ങളുടെ പ്രവർത്തന മാധ്യമം എന്താണ് നീരാവി സാച്ചുറേറ്റഡ് വേപ്പർ അല്ലെങ്കിൽ സൂപ്പർഹീറ്റ്ഡ് വേപ്പർ എന്നിവ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു അതിനാൽ സാച്ചുറേറ്റഡ് നീരാവി ആണെങ്കിൽ അതിന്റെ നിർദ്ദിഷ്ട വോളിയം നൊട്ടേഷന് vg ആയിരിക്കാം വേപ്പർ അബ്സോർപ്ഷൻ റഫ്രിജറേഷൻ സംവിധാനത്തിൽ എന്താണ് പ്രവർത്തന മാധ്യമം അമോണിയയുടെ ജലീയ ലായനി ഉപയോഗിച്ചാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരു ദ്രാവകം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇതിനെ നാം ദ്രാവകമെന്ന് വിളിക്കുകയാണെങ്കിൽ ഇവിടെ അമോണിയയുടെ ജലീയ ലായനിയാണ് ഇപ്പോൾ ഈ രണ്ട് നിർദ്ദിഷ്ട വോള്യങ്ങളിൽ ഏതാണ് താഴ്ന്നത് തീർച്ചയായും vliquid vg നേക്കാൾ വളരെ കുറവാണ് ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് എല്ലായ്പ്പോഴും നിസാരമായിരിക്കും അപ്പോൾ കുറഞ്ഞ ഇൻപുട്ട് ആവശ്യമുള്ളത് ഏതാണ് VARS നുള്ള വർക്ക് ഇൻപുട്ട് ആവശ്യകതയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായും VCRS നുള്ള വർക്ക് ഇൻപുട്ട് ആവശ്യകത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ VARS അതിന് വർക്ക് ഇൻപുട്ട് ആവശ്യകത താരതമ്യേന കുറവാണ് അതിനാൽ സൈക്കിളിലേക്കുള്ള മെക്കാനിക്കൽ ഇൻപുട്ട് വളരെ കുറവാണ് പിന്നെ ഇവിടെ മറ്റ് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കണ്ടൻസർ മർദ്ദത്തിലേക്ക് പമ്പ് ചെയ്ത ലായിനി ഇപ്പോൾ ജനറേറ്റർ എന്നറിയപ്പെടുന്ന മറ്റൊരു ഘടകത്തിലൂടെ കടന്നുപോകുന്നു ഇതിനിടയിൽ നമുക്ക് ഒരു റീജനറേറ്റർ ഉണ്ട് ഇത് സൌരോർജം ഉപയോഗിച്ച് താപനില ഉയർത്തുന്നു അതിനാൽ സ്റ്റാറ്റസ് 6 പമ്പിൽ നിന്ന് പുറത്തേക്കു വരുന്നതും ഒരു സ്റ്റേറ്റ് 7 റീജനറേഷനുശേഷം ഉള്ളതുമാണ് റീ ജനറേറ്റർ നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റിവയ്ക്കാം അതിനാൽ ഇത് ജനറേറ്ററിലേക്ക് പ്രവേശിക്കുകയാണ് ജനറേറ്ററിൽ മാലിന്യ ഊർജ്ജ സ്രോതസ്സിൽനിന്നോ സൌരോർജ്ജത്തിൽ നിന്നോ ചൂട് ഇതിലേക്ക് ചേർക്കുന്നു ഈ ഊർജ്ജ സോതസ്സ്ലായനിയുടെ താപനില 100 120 അല്ലെങ്കിൽ 140 0C വരെ ഉയർത്താൻ കഴിയണം പക്ഷേ 180 0C ൽ കൂടരുത് അതിനാൽ നമുക്ക് വളരെ ഉയർന്ന താപനിലയിലേക്ക് പോകേണ്ട ആവശ്യമില്ല അമോണിയയുടെ ഈ ജലീയ ലായനിയുടെ താപനില ആ നിലയിലേക്ക് ഉയർത്താൻ ആവശ്യമായ ഊർജ്ജസ്രോതസ്സ് ഉണ്ടാവണം സാധാരണയായി ഏതെങ്കിലും മാലിന്യ ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ സൌരോർജ്ജം അല്ലെങ്കിൽ ജിയോതർമൽ എനർജി 9geo thermal energy ചില ഓട്ടോമൊബൈൽ വാഹനങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന എക്സോസ്റ്റ് ഗ്യാസ് തുടങ്ങിയവയ്ക്ക് ഈ താപനിലയിലേക്ക് ഉയർത്താൻ ആവശ്യമായ ഊർജ്ജം ഉണ്ട് ഈ ചിത്രത്തിൽ സൌരോർജ്ജം ശേഖരിക്കുന്ന ഒരു സോളാർ ഫ്ലാറ്റ് പ്ലേറ്റിന്റെ രൂപഘടന കാണിച്ചിരിക്കുന്നു ഇവിടെ വെള്ളം സൌരോർജ്ജത്തെ ആഗിരണം ചെയ്യുകയും ഇവിടെ കാണിച്ചിരിക്കുന്ന ട്യൂബുകളിലൂടെ കടത്തിവിടുകയും ചെയ്യുന്നു ഇത് ഈ ട്യൂബുകളിലൂടെ കടന്നുപോകുന്നു ഈ കൂളിംഗ് ജാക്കറ്റ് ലായനിയിലൂടെ കടന്നുപോകുമ്പോൾ ഇതിന് താപം ചേർക്കുന്നു അതിനാൽ ഈ Qgen അല്ലെങ്കിൽ നമുക്ക് QG എന്ന് എഴുതാം ഇത്രയും താപം ജനറേറ്ററിൽ ചേർക്കപ്പെടുന്നു ചൂട് ചേർക്കുമ്പോൾ അമോണിയ ഇതിൽ നിന്ന് വേർപെടുത്തും മിശ്രിതത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടും വാതക അമോണിയ തിരികെ വരും ഇത് കണ്ടൻസറിലേക്ക് മടങ്ങി പോകുന്നു സാധാരണയായി അമോണിയയും നീരാവിയും തികച്ചും ബാഷ്പീകരിക്കപ്പെടുന്നവയാണ് അതിനാൽ നമുക്ക് ഒരു റക്റ്റിഫയർ ആവശ്യമാണ് അതിലൂടെ നമുക്ക് നീരാവി വേർതിരിക്കാനും നീരാവി ജനറേറ്ററിലേക്ക് തിരികെ അയയ്ക്കാനും കഴിയും അതിനാൽ ശുദ്ധമായ അമോണിയ മാത്രമേ കണ്ടൻസർ ലേക്ക് എത്തുകയുള്ളൂ ഇപ്പോൾ അമോണിയ വേർപെട്ടു കഴിഞ്ഞു പിന്നെ ജനറേറ്ററിൽ അവശേഷിച്ചത് എന്താണ് ഈ സ്റ്റേറ്റ് നമ്പർ 8 ൽ അവശേഷിച്ചത് എന്താണ് അത് നീരാവി മാത്രമായിരിക്കണം എന്നാൽ അത് നീരാവി മാത്രമല്ല ഇത് ഉയർന്ന താപനിലയിൽ ഉൽഭവിച്ച അമോണിയയുടെ സാന്ദ്രത കുറഞ്ഞ ജലീയ ലായനിയാണ് അതിനാൽ ഇവിടെ ഒരു റീജനറേറ്റർ ഉണ്ട് അത് തണുത്ത സ്റ്റേറ്റ് 9 ലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു അത് തണുക്കുമ്പോൾ ഉയർന്ന സാന്ദ്രതയിൽ വരുന്ന സ്രോതസ്സിലേക്ക് ഊർജം നൽകുന്നു പിന്നീട് ഇവിടെ എക്സ്പാൻഷൻ വാൽവ് ഉണ്ട് അവിടെ മർദ്ദം ഈ കണ്ടൻസർ മർദ്ദത്തിൽ നിന്ന് വീണ്ടും ബാഷ്പീകരണ മർദ്ദത്തിലേക്ക് കുറയുന്നു നിങ്ങൾ ജനറേറ്ററിൽ ചേർക്കുന്ന താപ ഊർജ്ജമായ ഈ Q dot G നമ്മൾ നൽകുന്നു അതിനാൽ ഇത് മെക്കാനിക്കൽ എനർജിക്ക് പകരം താപ പരമായി നയിക്കപ്പെടുന്ന സംവിധാനം പോലെയാണ് പമ്പ് ഉപയോഗത്തിലൂടെ തീർച്ചയായും മെക്കാനിക്കൽ എനർജി നൽകുന്നു പക്ഷേ കംപ്രസ്സറിന് ആവശ്യമായ ജോലിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ ചെറുതാണ് അതുകൊണ്ടാണ് ഇത് കൂടുതൽ താപ പരമായി നയിക്കപെടുന്നതാണ് അല്ലെങ്കിൽ പ്രവർത്തന മാധ്യമത്തിന് സംഭവിക്കുന്ന ഒരു താപ കംപ്രഷൻ എന്ന് ഇതിനെ വിളിക്കുന്നത് അതിനാൽ ഇവിടെ ഉപയോഗിക്കുന്ന വളരെ സാധാരണമായ പ്രവർത്തന ദ്രാവക സംയോജനമാണ് അമോണിയ വാട്ടർ മിശ്രിതം ഞങ്ങൾ രണ്ട് ദ്രാവകങ്ങൾ ഉപയോഗിക്കുന്നു ഒന്ന് റഫ്രിജറന്റാണ് അത് അമോണിയയാണ് മറ്റൊന്ന് അബ്സോർബർ ഈ കേസിൽ ജല നീരാവി നിങ്ങൾക്ക് സമാനമായ നിരവധി കോമ്പിനേഷനുകളുണ്ട് വളരെ പ്രചാരമുള്ള ജല സംയോജനവും റഫ്രിജറന്റായും ലിഥിയം ബ്രോമൈഡ് അബ്സോർബന്റായും ഉപയോഗിക്കുന്നു അതും വളരെ സാധാരണമായ ലായനിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് പല മിശ്രിതങ്ങളും ഉണ്ടാക്കാം അതിനാൽ സിസ്റ്റത്തിന്റെ ഗണിതശാസ്ത്ര വിശകലനമോ തെർമോഡൈനാമിക് വിശകലനമോ നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങളുടെ വേപ്പർ അബ്സോർപ്ഷൻ റഫ്രിജറേഷൻ സംവിധാനമാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഇൻപുട്ട് നൽകുന്ന ഊർജ്ജത്തിൻറെ അളവ് എന്താണ് തീർച്ചയായും QE അല്ലെങ്കിൽ Q dot E ഇതിലേക്കുള്ള ഇൻപുട്ടാണ് കൂടാതെ ജനറേറ്ററിന് ഇൻപുട്ടായി നൽകുന്ന താപോർജ്ജമാണ് Q dot G ഇവിടെ കണ്ടൻസറിൽ ചൂട് നിരസിക്കപ്പെടുന്നു മാത്രമല്ല അബ്സോർബറിലും താപം നിരസിക്കപ്പെടുന്നു കൂടാതെ ഇവിടെ ഇൻപുട്ടായി പമ്പ് വർക്ക് ചെയ്യുന്നു ഇത് ഒരു സൈക്കിളിൽ വർക്ക് ചെയ്യുന്നതിനാൽ തെർമോഡൈനാമിക്സ് ഒന്നാം നിയമം നമ്മൾ പ്രയോഗിച്ചാൽ ഇൻപുട്ട് ആയി നൽകേണ്ടുന്ന ഊർജ്ജം എന്നു പറയുന്നത് ഇൻപുട്ട് ആയി നൽകേണ്ടുന്ന ഊർജ്ജം എന്നു പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം ഇതാണ് ഒന്നാം നിയമ രീതി രണ്ടാം നിയമത്തിൻറെ കാഴ്ചപ്പാടിൽ ഇത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു സൈക്കിള് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ എൻട്രോപ്പിയും അവയുടെ ആകത്തുക പൂജ്യമോ അതിനേക്കാൾ കൂടുതലൊ ആയിരിക്കും ഒരു ഐഡിയൽ റിവേഴ്സ്സിബിൾ പ്രോസസ് ഇത് പൂജ്യത്തിന് തുല്യമായിരുന്നു അല്ലാത്ത പക്ഷം എൻട്രോപ്പി ഉത്പാദിപ്പിക്കപ്പെട്ട് കൊണ്ടിരിക്കും 𝑆𝑔𝑒𝑛 ≥ 0 സിസ്റ്റത്തിനായുള്ള എൻട്രോപ്പിയിലെ മാറ്റത്തിന്റെ ആകെത്തുകയും ചുറ്റുമുള്ള എൻട്രോപ്പിയിലെ മാറ്റവും സമ്മിശ്രണം പൂജ്യത്തേക്കാൾ വലുതോ തുല്യമോ ആയിരിക്കണം ∆𝑆𝑠𝑦𝑠 ∆𝑆𝑠𝑢𝑟𝑟 ≥ 0 ഇവിടെ സിസ്റ്റം ഒരു സൈക്കിളിൽ ആണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് അറിയാം ഒരു സൈക്കിൾ പ്രക്രിയയ്ക്ക് എൻട്രോപ്പിയിലെ മാറ്റം പൂജ്യത്തിനു തുല്യമായിരിക്കും കാരണം എപ്പോഴും സിസ്റ്റം ഇതിലേക്ക് തിരിച്ചു വന്നു കൊണ്ടേയിരിക്കും ∆𝑆𝑠𝑦𝑠 0 ഈ പ്രക്രിയ പ്രായോഗികം ആകണമെങ്കിൽ എൻട്രോപ്പിയിലെ മാറ്റം പൂജ്യമോ അതിനേക്കാൾ കൂടുതലൊ ആയിരിക്കണം ∆𝑆𝑠𝑢𝑟𝑟 ≥ 0 ഇത് ഒരു റിവേർസിബിൾ പ്രക്രിയയാണെങ്കിൽ ചുറ്റുമുള്ളവ പുനസ്ഥാപിക്കപ്പെടും അതിനാൽ ചുറ്റുമുള്ള എൻട്രോപ്പിയിലെ മാറ്റം പൂജ്യത്തിന് തുല്യമായിരിക്കും എന്നാൽ റിവേർസിബിൾ പ്രോസസ്സിന് ചുറ്റുമുള്ള എൻട്രോപ്പി വർദ്ധിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ സംഭവിക്കുന്ന താപ കൈമാറ്റം നമുക്ക് നോക്കാം ചുറ്റുപാടിന് നഷ്ടപ്പെടുന്ന ഊർജ്ജത്തിന് അളവ് എത്രയാണ് അതിലേക്ക് പോകുന്നതിനുമുമ്പ് നമുക്ക് ഇതിന് ചില പേരുകൾ നൽകാം ഇവപൊറേറ്റർ TE താപനില തലത്തിൽ പ്രവർത്തിക്കുന്നുവെന്നും കണ്ടൻസർ TC താപനിലയിലും ജനറേറ്റർ TG പ്രവർത്തന താപനിലയാണെന്നും ആഗിരണം പ്രവർത്തിക്കുന്നുവെന്നും അത് TA യുടെ താപനിലയാണെന്നും നമുക്ക് പറയാം അതിനാൽ ചുറ്റുപാടിന് എത്രത്തോളം ഊർജ്ജം നഷ്ടപ്പെടുന്നു ചുറ്റുപാടിൽ നിന്ന് പുറത്തുവരുന്ന സിസ്റ്റത്തിലേക്ക് Q dot E Q dot G എന്നിവ ചേർക്കപ്പെടുന്നു അതിനാൽ ആ രൂപത്തിൽ എൻട്രോപ്പി നഷ്ടപ്പെടുന്നു ഞങ്ങൾ അളവിലുള്ള നിരക്കിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനാൽ നമുക്ക് ഇത് എഴുതാം ഈ കോമ്പിനേഷൻ പൂജ്യമോ പൂജ്യത്തിന് തുല്യമോ ആയിരിക്കണം കാരണം Q dot A Q dot C എന്നിവ രണ്ടും ചുറ്റുപാടുകളിലേക്ക് പോകുന്നു ഇപ്പോൾ മിക്ക പ്രായോഗിക സാഹചര്യങ്ങളിലും TAയും TCയും പരസ്പരം തുല്യമായിരിക്കണം അവിടെയുള്ള എല്ലാ പ്രായോഗിക സംവിധാനങ്ങളിലും നമുക്ക് സമാനമായ സാഹചര്യങ്ങളുണ്ട് TA യെ TC കൊണ്ട് മാറ്റുന്നു ഇതിൻറെ കൂടെ ഒന്നാം നിയമം കൂടി സംയോജിപ്പിച്ചാൽ അല്ലെങ്കിൽ Q dot E ഒന്നിച്ച് ചേർത്താൽ എല്ലാ താപ ഇടപെടലുകളുമായും താരതമ്യപ്പെടുത്തുമ്പോൾ പമ്പ് വർക്ക് അല്ലെങ്കിൽ ഇതിന്റെ വ്യാപ്തി വളരെ ചെറുതാണ് പ്രത്യേകിച്ച് Q dot E Q dot G എന്നിവ അതിനാൽ നമുക്ക് ഈ വർക്ക് എന്ന പദം ഇതിൽ നിന്ന് നീക്കംചെയ്യാം അതിനാൽ നിങ്ങൾ ഇപ്പോൾ നിബന്ധനകൾ പുനക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം അല്ലെങ്കിൽ അവസാനമായി നമ്മൾ ഇതിൽ നിന്ന് TC നീക്കം ചെയ്യുന്നു അതിനുശേഷം ഇതിനെ ഒന്ന് പുനക്രമീകരിച്ചാൽ നമുക്ക് ഇങ്ങനെ എഴുതാം നമ്മൾ എന്തിനാണ് ഈ പ്രക്രിയ മുഴുവൻ ചെയ്യുന്നത് നമ്മൾ ഒരു കംപ്രഷൻ അധിഷ്ഠിതമായ സൈക്കിളിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഇതിൽ ഒരു വേപ്പർ കംപ്രഷൻ സൈക്കിൾ TE TC എന്നീ താപനില പരിധിക്കുള്ളിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൻറെ COP എത്രയായിരിക്കും ഒരു വേപ്പർ കംപ്രഷൻ സൈക്കിൾ അതിൻറെ COP പരമാവധി എന്നു പറയുന്നത് ഒരു കാർനോട്ട് സൈക്കിൾ ൻറെ COP ആണ് ഇതാണ് VCRS സിസ്റ്റത്തിന്റെ തുല്യമായ പരമാവധി COP നിങ്ങൾ സംസാരിക്കുന്ന VARS അതിനെപ്പറ്റി ആണ് ഈ ചക്രം പൂർണ്ണമായും പഴയപടിയാക്കാനാകും അതിന് പരമാവധി COP ഉണ്ടായിരിക്കും ഈ സൈക്കിൾ റിവേഴ്സ്സിബിൾ ആണെങ്കിൽ എൻട്രോപ്പി ഉൽപ്പാദിപ്പിക്കുന്നതിൻറെ നിരക്ക് 0 ന് തുല്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ COP എന്തായിരിക്കും അതിനാൽ ഈ VARSmax നുള്ള COP എന്നത് ഈ കേസിൽ COP യുടെ സാധാരണ നിർവചനമായിരിക്കും അതായത് റഫ്രിജറേഷൻ എഫക്ട് ഇൽ നിന്ന് നമ്മൾ നൽകുന്ന ഊർജ്ജം ഹരിക്കുന്നതാണ് ഇവിടെ വർക്ക് എന്ന ഘടകം വളരെ ചെറുതാണ് അതിനാൽ അതിനെ നമുക്ക് ഒഴിവാക്കാം ഇതാണ് COP ആണ് പരമാവധി COP അവയെപ്പറ്റി സംസാരിക്കുമ്പോൾ ഡെൽറ്റ സറൌണ്ടിംഗ് 0 നു തുല്യമായിരിക്കും അവിടെ നിന്നു നോക്കിയാൽ നമുക്ക് പറയാം അതിനാൽ VARS സിസ്റ്റത്തിൻറെ COP എപ്പോഴും ഒന്നിനേക്കാൾ കുറവായിരിക്കും കാരണം TG യുടെ പ്രവർത്തന താപനില കണ്ടൻസർ താപനിലയെക്കാളും ഇവപൊറേറ്റർ താപനിലയെക്കാളും വളരെ കൂടുതലായിരിക്കും അതിനാൽ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൻറെ COP എപ്പോഴും തത്തുല്യമായ കംപ്രഷൻ സിസ്റ്റത്തിനേക്കാൾ വളരെ കുറവായിരിക്കും അതുകൊണ്ടാണ് അബ്സോർപ്ഷൻ സിസ്റ്റം അധികം പ്രചാരം ഇല്ലാത്തത് കുറഞ്ഞ COP മാത്രമല്ല ഇതിൻറെ പ്രചാരണകുറവിന് കാരണം ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്ക് TG 100 0C എന്ന് എടുക്കാം ഇത് 373K തുല്യമാണ് Tc അന്തരീക്ഷ താപനിലയാണ് ആണ് അത് 27 0C അല്ലെങ്കിൽ 300 K ആണ് നമുക്ക് TE 0 0C അതായത് 27K എന്ന് എടുക്കാം ഇവിടെ VCRS ന് സമാനമായ പരമാവധി COP എന്തായിരിക്കും അതിനാൽ അതുപോലെതന്നെ ഈ COP താരതമ്യം ചെയ്യുകയാണെങ്കിൽ VARS ൻറെ പരമാവധി COP VCRS ൻറെ ഒന്നിൽ അഞ്ച് മാത്രമേയുള്ളൂ അതിനാൽ അബ്സോർപ്ഷൻ സിസ്റ്റത്തിന് വർക്ക് കുറവാണെങ്കിലും ഇത് ഉയർന്ന COP തരില്ല നമുക്ക് ഉയർന്ന താപ ഊർജം ഇല്ലാത്തപക്ഷം മാത്രം ഈ അബ്സോർപ്ഷൻ സിസ്റ്റം കാര്യക്ഷമമായി പ്രവർത്തിക്കുകയുള്ളൂ കാരണം നമുക്ക് പാഴാകുന്ന ഊർജ്ജം കൊണ്ട് ഇതിനെ പ്രവർത്തിപ്പിക്കുവാൻ കഴിയുന്നു മറ്റു യാന്ത്രിക പ്രവർത്തനങ്ങൾ ഒന്നുമില്ലാതെ അതിനാൽ സാമ്പത്തികനേട്ടം ഉള്ള ഈ സിസ്റ്റം കുറഞ്ഞ ചെലവിലുള്ളതും വലിയ അളവിൽ പാഴാകുന്നതുമായ ചില ഊർജ്ജ സ്രോതസ്സുകൾ ഉള്ള ഇടങ്ങളിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത് പുനരുപയോഗിക്കാവുന്ന സൌരോർജ്ജം പോലെയുള്ള ഊർജ്ജസ്രോതസ്സുകൾ

ഞങ്ങൾ ഉപയോഗിക്കുന്ന വർക്ക് ഇൻപുട്ടിനായി ആവശ്യമായ ചില അഭികാമ്യമായ സവിശേഷതകൾ റഫ്രിജറൻറ് അല്ലെങ്കിൽ അബ്സോർബർ കോമ്പിനേഷൻ നമ്മുടെ പ്രവർത്തി സാഹചര്യങ്ങളിൽ നല്ലത് പോലെ ഇടകലരാൻ പറ്റുന്നത് ആവണം ഒരിടത്തും ഇത് പരസ്പരം വേർപെട്ടു പോകരുത് മിക്സിംഗിന്റെ ചൂട് സാധ്യമായത്ര ചെറുതായിരിക്കണം അതിനാൽ QA ചെറുതായി തുടരും അപ്പോൾ അവ സിസ്റ്റത്തെ ദൃഢപ്പെടുത്തുകയും അരുത് ജലത്തെ അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റങ്ങളുടെ ഒരു പ്രശ്നമാണിത് കാരണം താപനില 0 0C യിൽ താഴുകയും വെള്ളം ഖരമാവുകയും ചെയ്യും അതിനാലാണ് വാട്ടർ ലിഥിയം ബ്രോമൈഡ് സിസ്റ്റം പോലുള്ള ജല അധിഷ്ഠിത സംവിധാനങ്ങൾ 0 0C യിൽ താഴെ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നത് അതിനാലാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ 0 0Cക്ക് മുകളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നത് അതായത് എയർ കണ്ടീഷനു വേണ്ടി അമോണിയ നമുക്ക് 15 മുതൽ 200C വരെ പോകാം അതിനാൽ അമോണിയ അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റം വലിയതോതിലുള്ള ശീതീകരണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു പ്രവർത്തനത്തിന്റെ മുഴുവൻ ശ്രേണിയിലും അവയ്ക്ക് നല്ല രാസ സ്ഥിരത ഉണ്ടായിരിക്കണം വിസ്കോസിറ്റി കുറവായിരിക്കണം അതിനാൽ വളരെ ചെറിയ ഘർഷണ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ പമ്പ് വർക്ക് ഇൻപുട്ട് കുറവായിരിക്കണം കൂടാതെ നല്ല താപ കൈമാറ്റം സ്വഭാവമുണ്ടാകാൻ താപ ചാലകത അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി ഉയർന്നതായിരിക്കണം അവ ഉപയോഗിക്കുന്ന ലോഹങ്ങളിൽ ദ്രവിക്കൽ ഉണ്ടാകരുത് ഒരു വാട്ടർ ലിഥിയം ബ്രോമൈഡ് അബ്സോർപ്ഷൻ സംവിധാനത്തെക്കുറിച്ച് വിശകലനം ചെയ്യാം അതിൻറെ സൈക്കിൾ ഇവിടെ കാണിച്ചിരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് കണ്ടൻസർ ജനറേറ്റർ ഇവപൊറേറ്റർ അബ്സോർബർ എന്നിവയുണ്ട് താപനിലയും അനുബന്ധ താപ ഇടപെടലുകളും നൽകിയിരിക്കുന്നു ഈ കുത്തിട്ട വരകൾ നോക്കൂ ഇതിന് മുകളിൽ നിങ്ങൾക്ക് കണ്ടൻസർ മർദ്ദവും അതിനു താഴെ ബാഷ്പീകരണ മർദ്ദമുണ്ട് മർദ്ദം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് സൊല്യൂഷൻ പമ്പ് അതേസമയം നമുക്ക് രണ്ട് എക്സ്പാൻഷൻ വാൽവുകൾ ഉണ്ട് ഒന്ന് റഫ്രിജറന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മറ്റൊന്ന് മിശ്രിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മർദ്ദം കുറയ്ക്കുന്നതിന് എക്സ്പാൻഷൻ വാൽവുകൾ ഉപയോഗിക്കുന്നു കൂടാതെ ഈ വര റെഫ്രിജറന്റ്നെയും മിശ്രിതങ്ങളെയും വേർതിരിക്കുന്നു റഫ്രിജറൻറ് ഫ്ലോ റേറ്റ് ṁ ന് തുല്യമാണെന്ന് നമുക്ക് അനുമാനിക്കാം ഇപ്പോൾ രണ്ട് മിശ്രിതങ്ങളുണ്ട് ഒന്ന് ഉയർന്ന സാന്ദ്രതയുള്ള ലായനി ഇതിൽ റെഫ്രിജറന്റ്ൻറെ ഉയർന്ന സാന്ദ്രത ഉണ്ട് മറ്റൊന്ന് സാന്ദ്രത കുറഞ്ഞ ലായനി അതിനാൽ ഇവിടെ ഏതു വരയിലാണ് റെഫ്രിജറന്റ്ൻറെ സാന്ദ്രത കൂടുതൽ ഓർക്കുക ഇവിടെ റഫ്രിജറൻറ് ആയി ഉപയോഗിക്കുന്നത് വെള്ളമാണ് അബ്സോർബറിൽ നിന്ന് ജനറേറ്ററിലേക്ക് പോകുന്നത് കൂടുതൽ വെള്ളത്തിൻറെ അംശം ഉള്ളതാണ് അതിനാൽ ṁ നെ ഉയർന്ന സാന്ദ്രതയുള്ള ലായനി എന്നും ṁss കുറഞ്ഞ സാന്ദ്രതയുള്ള ലായനി എന്നും ṁws എന്നും വിളിക്കുന്നു അതിനാൽ നമുക്ക് ഇതിനെ വേഗത്തിൽ വിശകലനം ചെയ്യാംഇവിടെ ഘർഷണ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ലോസ് വളരെ കുറവാണെന്ന് അനുമാനിക്കുന്നു ജനറേറ്ററിൽ നിന്നും അബ്സോർബറിൽ നിന്നും പുറത്തേക്ക് വരുന്ന ലായനി സന്തുലിതാവസ്ഥയിലാണ് ഇത് ഒരു പ്രധാന അനുമാനമാണ് കാരണം ഇത് അബ്സോർബറും ജനറേറ്ററും പുറന്തള്ളുന്ന മിശ്രിതത്തിന് ഗുണം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു സൊല്യൂഷൻ പമ്പ് അഡിയബാറ്റിക് ആയി കണക്കാക്കപ്പെടുന്നു മാത്രമല്ല ശുദ്ധമായ നീരാവി മാത്രമാണ് ജനറേറ്ററിൽ ഉത്പാദിപ്പിക്കുന്നത് ഈ അനുമാനങ്ങൾ ഉപയോഗിച്ച് കണ്ടൻസറിൽ നിന്ന് വിശകലനം ആരംഭിക്കാം നമുക്ക് എഴുതാം അവിടെ പ്രവേശിക്കുന്ന മുഴുവൻ മാസും എക്സ്പാൻഷൻ വാൽവ് ലേക്ക് പോകുന്നു ഇവിടെ രണ്ട് എക്സ്പാൻഷൻ വാൽവ് ഉള്ളതിനാൽ നമുക്കിതിനെ റെഫ്രിജറന്റ് വശത്തുള്ള എക്സ്പാൻഷൻ വാൽവ് എന്നും ഇതിനെ ലായനി വശത്തുള്ള എക്സ്പാൻഷൻ വാൽവ് എന്നും വിളിക്കാം കണ്ടൻസർ വശത്തും റെഫ്രിജറന്റ് എക്സ്പാൻഷൻ വാൽവിൻറെയും എന്താൽപി ഇങ്ങനെ എഴുതാം h2 h3 ഇത് റെഫ്രിജറന്റ് എക്സ്പാൻഷൻ വാൽവിന് ഉള്ളതാണ് ആണ് ഇവപൊറേറ്റർ ന് നമുക്ക് ഇങ്ങനെ എഴുതാം 𝑄𝐸 𝑚ℎ4 − ℎ3 ഇത് ഇവപൊറേറ്റർനുള്ളതാണ് സാധാരണഗതിയിൽ നിലകളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാം കാരണം TE എന്നത് ഞങ്ങളുടെ ടാർഗെറ്റ് ആപ്ലിക്കേഷൻ നിർണ്ണയിക്കുന്ന ഒന്നാണ് TC ചുറ്റുമുള്ള അവസ്ഥയെയും അനുസരിച്ചിരിക്കും TCയും TE യും തുല്യമാണ് ജനറേറ്റർ താപനിലയ്ക്ക് സാധാരണയായി കുറച്ച് ഒപ്റ്റിമൈസേഷൻ ആവശ്യമാണെങ്കിലും അത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഉറവിടത്തിന്റെ താപനിലയെ ആശ്രയിച്ചിരിക്കുന്നു Q dot E യും അറിയേണ്ടതുണ്ട് കാരണം അതാണ് നമ്മൾ സംസാരിക്കുന്ന ശീതീകരണ ലോഡ് അതിനാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതിലൂടെ ഒഴുകുന്ന റെഫ്രിജറന്റ്ൻറെ മാസ് ഫ്ലോ റേറ്റ് എളുപ്പത്തിൽ കണക്കാക്കാം ഇനി നമുക്ക് അബ്സോർബർ ലേക്ക് വരാം അവിടെ മൂന്ന് വരകൾ ഉണ്ട് അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതുമായ മുഴുവൻ ഊർജ്ജം എന്ന് പറയുന്നത് ഇതായിരിക്കും ഇത് അബ്സോർബർൻറെ ആണ് ഇതിനെ പുന ക്രമീകരിച്ചാൽ ഇങ്ങനെ എഴുതാം അബ്സോർബർ ഇൽ മാസ് ബാലൻസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ എഴുതാം സാന്ദ്രത കുറഞ്ഞ ലായനിയുടെ മാസ് ഫ്ലോ റേറ്റ് എത്രയാണ് ṁws എന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ലിഥിയം ബ്രോമൈഡിന്റെ സാന്ദ്രതയെ ആശ്രയിച്ചിരിക്കുന്നു ലിഥിയം ബ്രോമൈഡിന്റെ അളവ് അതേപടി തുടരുന്നു ദുർബലമായ ലായനിയിൽ ഉണ്ടായിരുന്ന ലിഥിയം ബ്രോമൈഡിന്റെ അളവ് സാന്ദ്രത കൂടിയ ലായനിയിൽ ഉള്ള ലിഥിയം ബ്രോമൈഡും ഒന്നായി തന്നെ തുടരുന്നു ലിഥിയം ബ്രോമൈഡ് അവശിഷ്ടങ്ങൾ വെള്ളത്തിൽ ലയിക്കുന്ന ഒരു ഖരരൂപമാണ് x എന്നത് സാന്ദ്രത കുറഞ്ഞ ലിഥിയം ബ്രോമൈഡ് ലായനിയിൽ ഉള്ള ലിഥിയം ബ്രോമൈഡ്ൻറെ തൂക്കത്തിൻറെ ഭിന്നസംഖ്യ ആണ് സാന്ദ്രത കൂടിയ ലായനിയിൽ ഉള്ള ലിഥിയം ബ്രോമൈഡ്ൻറെ തൂക്കം ഇവിടെ x മാസിൻറെ ഭിന്നസംഖ്യയെ മാറ്റി സ്ഥാപിക്കുന്നു ഇവയെ സമം ആക്കിയാൽ 𝑥𝑤𝑠 𝑚𝑤𝑠 𝑥𝑠𝑠𝑚𝑠𝑠 ഇവിടെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഓരോന്നിനെയും മാസ് കണ്ടുപിടിക്കാനാവും ഇനിയും എങ്ങനെ നമുക്ക് x കണ്ടുപിടിക്കാം x അബ്സോർബർ താപനിലയെ അനുസരിച്ചുള്ളതാണ് ഹീറ്റ്എക്സ്ചേഞ്ചറിൽ നിന്ന് പുറത്തുപോകുന്ന ലായനി സന്തുലിതാവസ്ഥയിലായിരിക്കുമെന്ന് അനുമാനിക്കുന്നു അതിനാൽ വീര്യമുള്ള ലായനിയുടെ x അബ്സോർബർ താപനിലയെ ബന്ധപ്പെടുത്തിയും ദുർബലമായ ലായനിയുടെ x എന്നത് പുറത്തേക്കുവരുന്ന കമ്പാർട്ട്മെൻറ്ൻറ അല്ലെങ്കിൽ അത് ജനറേറ്റർ താപനില അടിസ്ഥാനപ്പെടുത്തിയും ആണ് അതിനാൽ വെള്ളത്തിൻറെയും ലിഥിയം ബ്രോമൈഡിൻറെയും മാസ്സ് ഭിന്നസംഖ്യകൾ നമുക്ക് എളുപ്പത്തിൽ കണക്കാക്കാം അതിനനുസരിച്ച് നമുക്ക് ഊർജ്ജ ഉള്ളടക്കത്തിന്റെ മൂല്യം ലഭിക്കും ജനറേറ്റർ എനർജി ബാലൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ലഭിക്കും

ഇതിനെ പുനക്രമീകരിച്ചു ഇങ്ങനെ എഴുതാം ഇത് ജനറേറ്റർൻറെ ആണ് നമുക്ക് ഇവിടെ ഒരു പമ്പ് ഉണ്ട് പമ്പിൻറെ സ്ഥാനത്ത് നമുക്ക് സൊല്യൂഷൻ പമ്പ് ഇതിന് സമമായിരിക്കും ലായനിയുടെ വശത്തുള്ള എക്സ്പാൻഷൻ വാൽവ് ഒരു ഐസ്എന്താൽപ്പിക് വാൽവ് ആണ് ഇതിനെ അഡിയബാറ്റിക് ആയി അനുമാനിച്ചാൽ h9 h10 അവസാനമായി നമുക്ക് ഒരു ഹീറ്റ്എക്സ്ചേഞ്ചർ ഉണ്ട് ഒരു ഐഡിയൽ ഹീറ്റ്എക്സ്ചേഞ്ചർ ആണെങ്കിൽ അതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഊർജ്ജം തുല്യമായിരിക്കും ഒരു ഹീറ്റ് എക്സ്ചേഞ്ച്റിൽ വീര്യമുള്ള ലായനി സ്വീകരിക്കുന്ന ഊർജ്ജം എന്ന് പറയുന്നത് അത് ദുർബലമായ ലായനി നഷ്ടപ്പെടുത്തുന്ന ഊർജ്ജത്തിന് സമമായിരിക്കും അതിനാൽ ഇങ്ങനെ എഴുതാം മിക്കപ്പോഴും നമുക്ക് ഹീറ്റ്എക്സ്ചേഞ്ചറിന്റെ പ്രകടനത്തെ വിശദീകരിക്കുന്ന ഒരു പാരാമീറ്റർ ആവശ്യമാണ് ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ എഫക്ടീവ്നസ് അല്ലെങ്കിൽ ഫലപ്രാപ്തി നൽകുന്നു അതിന്റെ ഫലപ്രാപ്തി നിർവചിക്കപ്പെടുന്നത് ദുർബലമായ ലായനി കൈവരിക്കുന്ന യഥാർത്ഥ താപനില വ്യതിയാനമാണ് സാധ്യമായ പരമാവധി താപനില മാറ്റം യഥാർത്ഥ താപനില വ്യതിയാനം നടക്കുന്നത് പോയിൻറ് 8 മുതൽ 9 വരെയാണ് അതായത് ഇത് ജനറേറ്റർ താപനിലയിൽ നിന്ന് പോയിൻറ് 9 ലേക്ക് അതിനാൽവ്യതിയാനം എന്ന് പറയുന്നത് TG - T9 താപനിലയിൽ ഉണ്ടാകാവുന്ന പരമാവധി മാറ്റം എത്രയാണ് അത് TG - TA എക്സ്ചേഞ്ചറിന്റെ എഫക്ടീവ്നസ് എന്ന് പറയുന്നത് മിക്കപ്പോഴും എഫക്ടീവ്നസ് നിർമ്മാതാവ് നൽകുന്നതാണ് കൂടാതെ TG യും TA യും നമുക്കറിയാം അതിൽനിന്ന് T9 കണക്കാക്കാൻ പറ്റും ഹീറ്റ് എക്സ്ചേഞ്ചറിലുടനീളം എനർജി ബാലൻസ് നിർവഹിക്കാൻ കഴിയും അവസാനമായി ഈ സൈക്കിളിൻറെ COP ഇപ്രകാരം ലഭിക്കുന്നു

മിക്കപ്പോഴും പമ്പ് ജോലിയും ഇതിൽ നിന്ന് അവഗണിക്കും അതിനാൽ ഇപ്രകാരമൊരു അബ്സോർപ്ഷൻ റഫ്രിജറേഷൻ സൈക്കിൾ വിശകലനം ചെയ്യാൻ കഴിയും ഇപ്പോൾ നമ്മൾ വാട്ടർ ലിഥിയം ബ്രോമൈഡ് അധിഷ്ഠിത സിസ്റ്റത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ചില പ്രശ്നങ്ങളുണ്ട് അത് ക്രിസ്റ്റലൈസേഷൻ പോലെയുള്ള പ്രശ്നമാണ് ഇവപൊറേറ്റിൽ താപനില ഒരു നിശ്ചിത പരിധി താഴെ പോവുകയാണെങ്കിൽ ഒരു ഖര വസ്തുവായ ലിഥിയം ബ്രോമൈഡ് മിശ്രിതത്തിൽ നിന്നും വേർപെട്ട് പരലുകളായി മാറുകയും നിരവധി ബ്ലോക്കുകൾ ഉണ്ടാക്കുകയും ചെയ്യും ചില പരിധിക്ക് താഴെ നമുക്ക് താപനില കുറയ്ക്കാൻ കഴിയുകയില്ല അപ്പോൾ വായു ചോർച്ചയുണ്ടാകാം H2O LiBr സിസ്റ്റം എല്ലായ്പ്പോഴും അന്തരീക്ഷാവസ്ഥയിൽ ആണ് പ്രവർത്തിക്കുന്നത് കണ്ടൻസറിലും അബ്സോർബറിലും ഇവപൊറേറ്ററിലും ഇതേ അന്തരീക്ഷ അവസ്ഥയിൽ പ്രവർത്തിക്കുന്നു അതിനാൽ സിസ്റ്റത്തിലേക്ക് വായു ചോർന്നൊലിക്കാൻ സാധ്യതയുണ്ട് ഈ വായു ചോർച്ചയിൽ നിന്ന് സംരക്ഷിക്കാൻ വളരെ ശ്രദ്ധിക്കണം പൂർണ്ണമായി ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിലും സ്ഥിരമായുള്ള അറ്റകുറ്റപ്പണികൾ ഈ വായു ചോർച്ചയെ ഒഴിവാക്കാൻ ഒരു പരിധി വരെ സഹായിക്കും ഖര ലായനിയായ ലിഥിയം ബ്രോമൈഡ് മിക്സർ വശത്തേക്ക് ഒഴുകുന്നതിനാൽ ഇവിടെ ഒരു മർദ്ദ കുറവ് ഉണ്ടാക്കുന്നു നമുക്ക് ഇവിടെ 0 0C താഴെ താപനില എത്തിക്കുവാൻ പ്രയാസമാണ് കാരണം അതിനായി സൊലൂഷൻ പമ്പിൽ അധികം ആയ വർക്ക് നൽകേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇവിടെ വെള്ളമാണ് റെഫ്രിജറന്റ് ആയി ഉപയോഗിക്കുന്നത് അതിനാൽ അതിന്റെ പ്രയോഗം എയർകണ്ടീഷനിംഗ് ആവശ്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു അമോണിയ വാട്ടർ മിശ്രിതത്തിന് വളരെയധികം ഗുണങ്ങളാണ് കാരണം ഇത് വളരെ കുറഞ്ഞ താപനിലയിൽ −15 മുതൽ 200C വരെ പോകാൻ പറ്റും അതിനാൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത് വളരെ അനുയോജ്യമാണ് മർദ്ദം എല്ലായ്പ്പോഴും അന്തരീക്ഷമർദ്ദതിന് ഉള്ളിൽ ആയതിനാൽ വായു ചോർച്ച ഇല്ല ക്രിസ്റ്റലൈസേഷൻ പ്രശ്നമൊന്നുമില്ല കാരണം അമോണിയ ഒരു നീരാവി മാത്രമാണ് എന്നാൽ അമോണിയ വിഷമുള്ളതാണ് അതൊരു വലിയ പ്രശ്നമാണ്അതിനാൽ അതിൻറെ ഉപയോഗത്തെ നിയന്ത്രിച്ചിരിക്കുന്നു കോൾഡ് സ്റ്റോറേജ് പോലെയുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് ഇതാണ് ഉപയോഗിക്കുന്നത് കാരണം അമോണിയ ലിഥിയം ബ്രോമൈഡ് ലായനിയെക്കാൾ വില കുറവാണ് അമോണിയക്ക് അതിന്റേതായ പ്രശ്നങ്ങൾ ഉണ്ട് ജനറേറ്ററിൽ അമോണിയ ബാഷ്പീകരിക്കപ്പെടുകയും അവിടെ നിന്ന് കണ്ടൻസറിലേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും ഇത് നീരാവിയിലേക്ക് കലരാൻ ഇടയുണ്ട് അതിനാൽ അവയുടെ മിശ്രിതത്തിൽ നിന്ന് വെള്ളം നീക്കംചെയ്യാനും ശുദ്ധമായ അമോണിയ മാത്രം കണ്ടൻസറിലേക്ക് പോകാൻ അനുവദിക്കാനും നമുക്ക് റക്റ്റിഫയറുകൾ ആവശ്യമാണ് എന്നിട്ടും ആ പ്രക്രിയ ഒരിക്കലും 100 പിഴവില്ലാത്തതൊന്നുമല്ല അതുകൊണ്ട് ചില നീരാവി എല്ലായ്പ്പോഴും കണ്ടൻസറിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ളത് അതു പ്രകടനത്തെ സാരമായി ബാധിക്കുന്നു താപനില ഗ്ലൈഡ് സൂചിപ്പിക്കുന്നത് ആ ഐസോതെർമൽ അവസ്ഥ നിലനിർത്താൻ കഴിയാത്തതാണ് കണ്ടൻസേഷൻ പ്രക്രിയയിൽ ചില താപനില വ്യതിയാനങ്ങൾ ഉണ്ടാകും കാരണം താപ കൈമാറ്റം ഉള്ളിൽ നടക്കുന്നതാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ അപൂർണ്ണമായ ബാഷ്പീകരണം കാരണം എക്സ്പാൻഷൻ വാൽവിലൂടെ കടന്നുപോകുമ്പോൾ നീരാവി യോടൊപ്പം ചില ദ്രാവകങ്ങളും പ്രവേശിക്കാം ഇത് ദ്രവരൂപത്തിലുള്ള വെള്ളം ആയി മാറ്റപ്പെടുന്നു അതേസമയം അമോണിയ ബാഷ്പീകരിക്കപെടുമ്പോൾ കുറച്ച് നീരാവി ദ്രവരൂപത്തിൽ തന്നെ അവശേഷിക്കുന്നു ഇത് ബാഷ്പീകരണ പ്രിക്രിയയേയും താപ കൈമാറ്റത്തെയും ബാധിക്കുന്നു ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റുവാൻ ഞാൻ നമ്മുടെ സിസ്റ്റം H2O LiBr സിസ്റ്റവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ വലിപ്പമുള്ളതും കൂടുതൽ ചിലവേറിയതും ആകുന്നു അതിനാൽ അവസാനമായി അബ്സോർപ്ഷൻ കംപ്രഷൻ അടിസ്ഥാനമാക്കിയുള്ള സിസ്റ്റങ്ങൾ എന്നിവ വേഗത്തിൽ താരതമ്യം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യത്തെ മാനദണ്ഡം പ്രവർത്തിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ കംപ്രഷൻ അധിഷ്ഠിത സിസ്റ്റങ്ങൾ വർക്ക് ഓപ്പറേറ്റ്ഡ് ആണ് കാരണം ഇവിടെ ഇൻപുട്ടായി മെക്കാനിക്കൽ എനർജി നൽകുന്നു അതേസമയം അബ്സോർപ്ഷൻ സിസ്റ്റം താപത്തിൽ പ്രവർത്തിക്കുന്നു പമ്പിൽ മെക്കാനിക്കൽ എനർജി ആവശ്യമാണെങ്കിലും പ്രാഥമിക ഇൻപുട്ട് ജനറേറ്ററിലെ താപത്തിന്റെ രൂപത്തിലാണ് അബ്സോർപ്ഷൻ സിസ്റ്റവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ ഉയർന്ന COP ലഭിക്കുന്നു TE യെ ആശ്രയിച്ച് ഇതിൻറെ പ്രകടനത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു ബാഷ്പീകരണ താപനിലയിലെ ഏത് മാറ്റവും COP യും കംപ്രഷൻ റഫ്രിജറേഷൻ സിസ്റ്റത്തിന്റെ മറ്റ് പ്രകടനവും വളരെ ശക്തമായി ബാധിക്കുന്നു സങ്കൽപ്പികമായി നോക്കിയാൽ ഇത് ബാഷ്പീകരണ താപനിലയിൽ നിന്ന് സ്വതന്ത്രമാണ് അടുത്തത് ബാഷ്പീകരണ എക്സിറ്റ് അവസ്ഥ ബാഷ്പീകരണത്തിൻറെ ഒടുവിൽ ഇത് ഒരു കംപ്രസ്സർ ലൂടെ കടന്നു പോകണം അതിനാൽ തന്നെ ഇത് നീരാവി അവസ്ഥയിൽ ആയിരിക്കണം ബാഷ്പീകരണത്തിൻറെ ഒടുവിൽ നമുക്ക് കുറഞ്ഞത് സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ സൂപ്പർഹിറ്റ്ഡ് നീരാവി ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം ഇതാണ് കംപ്രസ്സറിലേക്ക് പോകുന്നത് അബ്സോർപ്ഷൻ സംവിധാനത്തിൽ ഇത് കംപ്രസ്സർലേക്ക് അല്ല മറിച്ച് അബ്സോർബർലേക്ക് ആണ് പോകുന്നത് അതിനാൽ ഇത് ദ്രാവകവും ആകാം ഇത് എല്ലായ്പ്പോഴും നീരാവി ആകുന്നതാണ് നല്ലത് എങ്കിലും ചില ദ്രാവകങ്ങൾ അബ്സോർബറിലേക്ക് പ്രവേശിച്ചാലും പ്രശ്നമില്ല അതിനാൽ ഇത് കൂടുതൽ സുരക്ഷിതമാണ് പാർട്ട് ലോഡ് പ്രകടനം പാർട്ട് ലോഡ് പ്രകടനം എന്നാൽ ഒരു സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അത് പരമാവധി ലോഡ് അല്ലെങ്കിൽ പൂർണ ലോഡ്ഡിൽ ആയിരിക്കുന്ന അവസ്ഥയാണ് എന്നാൽ പലപ്പോഴും നമ്മൾ സിസ്റ്റം പാർട്ട് ലോഡ് അവസ്ഥയിൽ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഗാർഹിക റഫ്രിജറേറ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരേസമയം 50 കിലോ പച്ചക്കറികൾക്കാണ് എന്ന് ചിന്തിക്കുക പക്ഷേ ഒരു പ്രത്യേക അവസരത്തിൽ വെറും 1 കിലോ മാത്രം അതിൽ ഉള്ളൂ അത് പാർട്ട് ലോഡ് അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് VCRSനുള്ള പാർട്ട് ലോഡ് പ്രകടനം മോശമാണ് എന്നാൽ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ ഇത് ഇതിൻറെ പ്രകടനത്തെ കാര്യമായി ബാധിക്കുന്നില്ല അതുകൊണ്ടാണ് വലിയ തോതിലുള്ള ആപ്ലിക്കേഷന് ഇത് വളരെയധികം ഉപയോഗിക്കപ്പെടുന്നത് ഷോപ്പിംഗ് മാളിലെന്നപോലെ നിങ്ങൾ ഒരേസമയം 500 പേർ ഉണ്ടായിരിക്കുമെന്ന് അനുമാനിച്ച് എയർ കണ്ടീഷനിംഗ് സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കാം എന്നാൽ ചില അവസരങ്ങളിൽ 50 ആളുകൾ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ ഇത് അതിന്റെ പ്രകടനത്തെ ബാധിക്കാനിടയില്ല അതേസമയം കംപ്രഷൻ റഫ്രിജറേഷൻ സിസ്റ്റത്തെ സംബന്ധിച്ചിടത്തോളം പ്രകടനം വളരെ താഴ്ന്നതായിരിക്കും ഒതുക്കം ഇപ്പോൾ ചെറിയ ശേഷി സംവിധാനത്തിനായി ചെറിയ സിസ്റ്റങ്ങൾ കൂടുതൽ ഒതുക്കമുള്ളതാണ് എന്നാൽ ഇവിടെ വലിയ സംവിധാനങ്ങൾ കൂടുതൽ ഒതുക്കമുള്ളതാണ് കാരണം ഇവിടെ നമുക്ക് അബ്സോർബറിന്റെയും ജനറേറ്ററിന്റെയും രൂപത്തിൽ രണ്ട് അധിക കമ്പാർട്ടുമെന്റുകളുണ്ട് VCRS ആയി താരതമ്യം ചെയ്യുമ്പോൾ ഇതൊരു ഒരു വലിയ സിസ്റ്റം ആണ് പ്രവർത്തന ദ്രാവകങ്ങൾ VCRS ൽ സിന്തറ്റിക് ദ്രാവകം ഉപയോഗിക്കുന്നു VARSൽ പ്രകൃതിദത്ത റഫ്രിജറന്റ് അമോണിയ അല്ലെങ്കിൽ ജല നീരാവി ആണ് ഉപയോഗിക്കുന്നത് ഒടുവിൽ സാമ്പത്തിക കാഴ്ചപ്പാടിൽ വലിയ അളവിലുള്ള വലിപ്പത്തിലും ഇത് ലഭ്യമാകും എങ്കിലും സാമ്പത്തിക കാഴ്ചപ്പാടിൽ ഇത് ലാഭകരം ആകുന്നത് പാഴ് ഊർജ്ജം ഉപയോഗിച്ചു പ്രവർത്തിക്കുമ്പോഴാണ് ഏതെങ്കിലും തരത്തിലുള്ള പാഴ് ഊർജ്ജം ലഭ്യമല്ലെങ്കിൽ ഇത് ഒട്ടും ലാഭകരമല്ല അതിനാലാണ് VARS വലിയതോതിലുള്ള ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നത് അതിനാൽ ഈ പ്രത്യേക മൊഡ്യൂളിന്റെ അവസാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു ഇവിടെ ശീതീകരണ ആശയം ശീതീകരണ ആപ്ലിക്കേഷനുകൾ കുറഞ്ഞ താപനില ഉത്പാദിപ്പിക്കുന്നതിനുള്ള വ്യത്യസ്ത രീതികൾ എന്നിവയെക്കുറിച്ച് സംസാരിച്ചു റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ വേപ്പർ കംപ്രഷൻ റഫ്രിജറേഷൻ സൈക്കിൾ അതിന്റെ വ്യത്യസ്ത വ്യതിയാനങ്ങൾ തുടങ്ങി കംപ്രഷൻ അധിഷ്ഠിത സംവിധാനങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിച്ചു തുടർന്ന് ഗ്യാസ് റഫ്രിജറേഷൻ സൈക്കിളിനെക്കുറിച്ച് സംസാരിച്ചു ഇന്ന് ഞാൻ അബ്സോർപ്ഷൻ റഫ്രിജറേഷൻ സൈക്കിളിനെക്കുറിച്ചും അതിന്റെ പ്രാഥമിക സവിശേഷതകളെക്കുറിച്ചും കംപ്രഷൻ സൈക്കിളുമായി താരതമ്യപ്പെടുത്തിയും സംസാരിച്ചു അതിനാൽ ചെറിയ തോതിലുള്ള ആപ്ലിക്കേഷനുകൾക്കായി കംപ്രഷൻ അധിഷ്ഠിത സൈക്കിളുകൾ എന്തുകൊണ്ട് തെരഞ്ഞെടുക്കുന്നു എന്നും വലിയ തോതിലുള്ള അപ്ലിക്കേഷനുകൾക്ക് അബ്സോർപ്ഷൻ അധിഷ്ഠിത സംവിധാനം എന്തുകൊണ്ട് ഉപയോഗിക്കുന്നതെന്നും നമ്മൾ പഠിച്ചു ലക്ച്ചർ 9 ൻറെ അവസാനത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു അസൈൻമെൻറ് ഉടൻ ലഭ്യമാക്കും അവ ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ എഴുതി അറിയിക്കുക റഫ്രിജറേഷൻ ഒരു വലിയ വിഷയം ആണ് സാധാരണയായി ഇത് ഒരു പ്രത്യേക വിഷയമായോ അവസാന വർഷത്തെ ഒരു വിഷയം ആയോ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ലെവലിൽ ഉള്ള ഒരു വിഷയമായോ ആണ് പഠിക്കുന്നത് മാത്രമല്ല ഇത് വളരെ രസകരമായതും പ്രയോഗ സാധ്യത ഉള്ളതുമാണ് അതിനാൽ നിങ്ങളിൽ ആർക്കെങ്കിലും കൂടുതൽ താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായി പാഠപുസ്തകങ്ങൾ പരിശോധിക്കുക റഫ്രിജറേഷനിൽ ധാരാളം നല്ല പാഠപുസ്തകങ്ങൾ ലഭ്യമാണ്